വൈദ്യുത ധ്രുവീകരണവും ബന്ധിത ചാർജുകളും 1 നമ്മൾ ഇതിനു മുൻപുള്ള ക്ലാസ്സുകളിൽ വ്യത്യസ്ത ഇലക്ട്രോസ്റ്റാറ്റിക് അവസ്ഥകളെ കുറിച്ച് വിശദീകരിച്ചു അവിടെ നമ്മൾ ഒരു ചാലകത്തിനു സമീപ മേഖലയിലെ ഇലക്ട്രിക്ക് ഫീൽഡ് അഥവാ വൈദ്യുത മണ്ഡലം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഇവയെക്കുറിച്ചും ചർച്ച ചെയ്തു കഴിഞ്ഞു അടുത്തതായി മറ്റൊരു വിഭാഗത്തിൽ പെട്ട വസ്തുക്കൾ അതായത് ഡൈഇലക്ട്രിക്സ് കളെ കുറിച്ചും ഇവ എങ്ങിനെ ഒരു ഇലക്ട്രിക്ക് ഫീൽഡിനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചും വിശദീകരിക്കാം നമ്മളിവിടെ രേഖീയ സ്വഭാവം കാണിക്കുന്ന അഥവാ ലീനിയർ ഡൈഇലക്ട്രിക്സുകളെ കുറിച്ച് മാത്രമാണ് പ്രതിപാദിക്കുന്നത് ഡൈഇലക്ട്രിക്സ് ഒരു ഇലക്ട്രിക്ക് ഫീൽഡിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാനായി നമുക്ക് ആദ്യം ധ്രുവീകരണം അഥവാ പോളറൈസേഷൻ എന്താണെന്ന് നോക്കാം എന്തുകൊണ്ടാണ് പോളറൈസേഷൻ ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് കാരണം ഡൈഇലക്ട്രിക്സ് ധ്രുവീകരണത്തിന് വിധേയമാവുന്നതിനാൽ ഇലക്ട്രിക്ക് ഫീൽഡിനെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ടു തന്നെ പോളറൈസേഷനെ കുറിച്ചും ഡൈഇലക്ട്രിക്സിലെ സ്വതന്ത്ര ചലനശേഷിയില്ലാത്ത അഥവാ ബന്ധിത ചാർജുകളിലൂടെ അതായത് ബൌണ്ട് ചാർജുകളിലൂടെ എങ്ങനെ പോളറൈസേഷൻ മനസിലാക്കാം എന്നതിനെക്കുറിച്ചും നമുക്കിവിടെ ചർച്ച ചെയ്യാം നമുക്ക് പോളറൈസേഷൻ എന്താണെന്ന് ഇത്തരം ബൌണ്ട് ചാർജുകളിലൂടെ മനസ്സിലാക്കാം അതിനുശേഷം ഗണിത ശാസ്ത്രപരമായി വികസിപ്പിച്ചെടുത്ത് ഇതിന്റെ ഭൌതികശാസ്ത്രപരമായ അർഥം കൂടി നോക്കാം പോളറൈസേഷൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം ധ്രുവീകരണം അഥവാ പോളറൈസേഷൻ എന്നത് യൂണിറ്റ് വോളിയത്തിലുണ്ടാവുന്ന ഡൈപോൾ മോമെന്റ്റ് ആണ് എന്ന് കണക്കാക്കാം അതായത് നമ്മൾ ഒരു കട്ടിയായ ഡൈഇലക്ട്രിക്ക് വസ്തുവിന്റെ ഉള്ളിലായി ഒരു വളരെ ചെറിയ വോളിയം dV സങ്കല്പിച്ചാൽ ഇതിന്റെ ഡൈപോൾ മോമെന്റ്റ് ഇവിടെ P എന്നത് പോളറൈസേഷൻ അല്ലെങ്കിൽ പോളറൈസേഷൻ ഡെൻസിറ്റി ആണ് ഇതും ചാർജ് ഡെൻസിറ്റിയും തമ്മിലുള്ള സാമ്യം നോക്കൂ ഒരു ചെറിയ വോളിയം സങ്കല്പിച്ചാൽ അതിലുള്ള ചാർജ് എന്നത് ഇവിടെ എന്നത് ചാർജ് ഡെൻസിറ്റി ആണ് ഇതിനോട് സമാനമാണ് പോളറൈസേഷൻ ഡെൻസിറ്റി P ചാർജ് ഡെൻസിറ്റി എന്നത് വളരെ ചെറിയ ചെറിയ ചാർജുകളുടെ വിന്യാസം എന്ന് കണക്കാക്കുന്നതുപോലെ ഇവിടെ പോളറൈസേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് ചിത്രത്തിൽ കാണിച്ചതുപോലെ വളരെ ചെറിയ ഡൈപോളുകളുടെ അടുത്തടുത്തായുള്ള വിന്യാസമായി കണക്കാക്കാം മാക്രോസ്കോപ്പിക്ക് സ്കെയിലിൽ ഒരു ചെറിയ വോളിയം എടുക്കുമ്പോൾ ചാർജ് ഡെൻസിറ്റി ഒരു തുടർ ചാർജ് വിന്യാസമായി അനുഭവപ്പെടുന്നതുപോലെ ഡൈഇലൿട്രിക്കിൽ മാക്രോസ്കോപ്പിക്കലി ചെറിയ വോളിയം എടുത്താൽ ഇത്തരം ഡൈപോളുകളുടെ വിന്യാസം ഒരു തുടർ ഡൈപോൾ വിന്യാസമായി അനുഭവപ്പെടുന്നു എന്നാൽ മൈക്രോസ്കോപ്പിക്ക് സ്കെയിലിൽ അതായത് വളരെ സൂക്ഷ്മമായ സ്കെയിലിൽ ചാർജ് ഡെൻസിറ്റിയെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവിടെ ഇലക്ട്രോണും പ്രോട്ടോണും വേറെ വേറെ കാണപ്പെടുന്നു അതായത് തുടർ വിന്യാസമാകുന്നില്ലെന്നർത്ഥം അപ്പോൾ വളരെ സൂക്ഷ്മമായ സ്കെയിലിൽ ചിന്തിക്കുമ്പോൾ ഈ ഡൈപോളുകളും തുടർ വിന്യാസത്തിലായിരിക്കില്ല എന്നാൽ നമ്മൾ ചാർജ് ഡെൻസിറ്റിയെ തുടർ ചാർജ് വിന്യാസമായി കണക്കാക്കുന്നതുപോലെ ഇവിടെയും പോളറൈസേഷൻ ഡെൻസിറ്റിയെ തല്ക്കാലം തുടർ ഡൈപോൾ വിന്യാസമായി കണക്കാക്കാം അടുത്തതായി അറിയേണ്ടത് ഇത്തരം ഡൈപോൾ വിന്യാസം എങ്ങനെ ഇലക്ട്രിക്ക് ഫീൽഡും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും ഉണ്ടാക്കുന്നു എന്നാണ് നമുക്കറിയാം ഒറിജിനിൽ നിന്നും പൊസിഷൻ വെക്റ്റർ rʹ ആയി ഒരു പോയിന്റ് ഡൈപോൾ ഉണ്ടെങ്കിൽ പൊസിഷൻ വെക്റ്റർ r ആയിട്ടുള്ള ഒരു ബിന്ദുവിൽ ഈ ഡൈപോൾ കാരണമുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഇവിടെ ഡൈപോളിൽ നിന്നും ബിന്ദുവിലേക്കുള്ള വെക്റ്റർ ആണ് r r പൊട്ടൻഷ്യൽ കാണാനുള്ള ഈ ഇക്വേഷൻ കാണുന്ന വിധം ഞാൻ നേരത്തെ അസൈൻമെന്റ് ആയി തന്നിട്ടുണ്ട് അവിടെ നമ്മൾ ഫീൽഡ് കണ്ടുപിടിച്ചിരുന്നു അതിൽ നിന്നും പൊട്ടൻഷ്യൽ കാണുന്നത് വളരെ എളുപ്പമായതിനാൽ ഞാൻ അത് അസൈൻമെന്റ് ആക്കിയിരുന്നു ഞാൻ ഇവിടെ ഒരു തുടർ ഡൈപോൾ വിന്യാസത്തിലെ ഒരു ചെറിയ വോളിയം dV എടുത്താൽ ഇതിന്റെ ഡൈപോൾ മൊമെൻറ് ഈ ചെറിയ ഡൈപോൾ മൊമെൻറ് കാരണമുള്ള ഇൻഫിനിറ്റെസിമൽ പൊട്ടൻഷ്യൽ അതായത് ഈ വിന്യാസം കാരണമുള്ള ആകെ പൊട്ടൻഷ്യൽ ലഭിക്കാൻ ഇതിനെ മുഴുവൻ വോളിയത്തിലേക്കുമായി ഇന്റഗ്രേറ്റ് ചെയ്യണം

അടുത്തതായി പോളറൈസേഷൻ ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എന്താണെന്ന് നോക്കാം പോളറൈസേഷൻ ഡെൻസിറ്റി എന്നാൽ യൂണിറ്റ് വോളിയത്തിലെ ഡൈപോൾ മോമെന്റ്റ് ആണല്ലോ ഡൈപോൾ മോമെന്റ്റ് എന്നത് ചാർജ് ✕ ലെങ്ത് ആണ് അപ്പോൾ പോളറൈസേഷൻ ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ Coulomb Length Length 3 അതായത് Coulomb Length 2 ആയിരിക്കും അപ്പോൾ പോളറൈസേഷൻ കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഇത്രയുമാണ് അടുത്തതായി നമുക്ക് ഇത് ചാർജിന്റെ രൂപത്തിൽ എഴുതാൻ ശ്രമിക്കാം നമുക്ക് ഒരു ചതുരാകൃതിയിലുള്ള പെട്ടി സങ്കല്പിക്കാം ഇതിന്റെ ഉപരിതലത്തിൽ എല്ലായിടത്തും ഒരേ പൊട്ടൻഷ്യൽ ആണുള്ളത് ഇതിൽ ഉണ്ടായിരിക്കുന്ന പോളറൈസേഷൻ ഡെൻസിറ്റി ചിത്രത്തിൽ കാണുന്നത് പോലെ ചെറിയ ചെറിയ ഡൈപോളുകൾ കാരണമാണെന്നിരിക്കട്ടെ ഇതിൽ ഒരു ഡൈപോൾ എടുത്താൽ അതിനു ഇടതു വശത്ത് നെഗറ്റീവും വലതു വശത്ത് പോസിറ്റീവും ചാർജ് ഉണ്ടെന്നിരിക്കട്ടെ ഇവിടെ ഡൈഇലക്ട്രിക്കലിനുള്ളിൽ ഒരു ഡൈപോളിന്റെ പോസിറ്റീവ് ചാർജ് തൊട്ടടുത്ത ഡൈപോളിന്റെ നെഗറ്റീവ് ചാർജുമായി നിർവീര്യമാക്കപ്പെടുന്നു എന്ന് നമുക്ക് കാണാം അങ്ങനെ ഉൾഭാഗത്ത് ഡൈപോളുകളുടെ ചാർജുകൾ തമ്മിൽ നിർവീര്യമാക്കപ്പെടുകയും പ്രതലങ്ങളിൽ മാത്രം ചാർജ് ഡെൻസിറ്റി നിലനിൽക്കയും ചെയ്യുന്നു അതായത് പോളറൈസേഷൻ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ വലതുവശത്ത് പോസിറ്റീവ് ചാർജും ഇടതുവശത്ത് നെഗറ്റീവ് ചാർജും നിർവീര്യമാക്കപ്പെടാതെ നിലനിൽക്കുന്നു അതുമൂലം ഉപരിതല ചാർജ് ഡെൻസിറ്റി ഉണ്ടാകുന്നു അടുത്തതായി ഡെൻസിറ്റി വ്യത്യാസപ്പെടുന്ന സന്ദർഭം എടുക്കാം ഡെൻസിറ്റി ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിരിക്കും ഡെൻസിറ്റിയുടെ വ്യത്യാസം ചിത്രത്തിൽ വ്യത്യസ്ത നീളത്തിലുള്ള ആരോ മുഖേന വ്യക്തമാക്കിയിരിക്കുന്നു വലിയ ആരോ കൂടുതൽ ഡെൻസിറ്റിയെ അല്ലെങ്കിൽ കൂടുതൽ ചാർജിനെ കാണിക്കുന്നു ഉദാഹരണമായി ഇവിടെ q q ഒരു നിശ്ചിത അകലത്തിൽ വേർതിരിച്ചിരിക്കുന്ന ഡൈപോൾ ആണെന്നിരിക്കട്ടെ ഇതേ അകലത്തിൽ വേർതിരിച്ചിരിക്കുന്ന അല്പം കൂടുതൽ ചാർജുള്ള മറ്റൊരു ഡൈപോൾ ആണ് Q Q ഇവ ചേർന്നുള്ളത് അങ്ങനെയെങ്കിൽ മൈക്രോസ്കോപിക് വോളിയം എടുത്താൽ ഇവയുടെ ചാർജുകൾ തമ്മിൽ നിർവീര്യമാക്കപ്പെടില്ല അതായത് ഡൈഇലെക്ട്രിക്കലിനുള്ളിൽ പോളറൈസേഷൻ ഡെൻസിറ്റി പല സ്ഥാനങ്ങളിൽ പലതാണെങ്കിൽ അത് ഒരു ബൾക്ക് ചാർജ് അഥവാ വോളിയം ചാർജിനു കാരണമാകുന്നു അപ്പോൾ പോളറൈസേഷൻ ഡെൻസിറ്റി എങ്ങനെ സർഫേസ് ചാർജിനും വോളിയം ചാർജിനും കാരണമായിത്തീരുന്നെന്നു നമ്മൾ കണ്ടു കഴിഞ്ഞു ഇത് ഗണിതശാസ്ത്രപരമായി എങ്ങനെ ലഭിക്കുമെന്ന് അടുത്ത ക്ലാസ്സിൽ നോക്കാം